എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഐഐടി കാൺപൂരിന്റെ എൻപിടിഇഎൽ എംഒഒസി കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് 6 ാം ആഴ്ചയാണ് നമ്മൾ മൊഡ്യൂൾ 6 ലാണ് ഇത് പ്രഭാഷണ നമ്പർ 33 ആണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ആഴ്ചയിൽ ഞാൻ ആശയവിനിമയ വൈദഗ്ധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു വ്യക്തിപരമായ ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളുമായി ഈ പ്രഭാഷണവും ഞാൻ തുടരാൻ പോകുന്നു ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേക്കാവുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ഫലപ്രദമായ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ ശാരീരികവും മാനസികവും വൈകാരികവും മാനസികവുമായ ഏതുതരം തടസ്സങ്ങൾ എന്നിവയോടെയാണ് മുമ്പത്തെ പ്രഭാഷണം ആരംഭിച്ചത് അതിനാൽ അവ ബ്ലോക്കുകളായി പ്രവർത്തിക്കുന്നു തുടർന്ന് അവ ആശയവിനിമയത്തിന്റെ പരാജയത്തിന് കാരണമാകുന്നു അല്ലെങ്കിൽ തെറ്റായ ആശയവിനിമയത്തിലേക്ക് നയിച്ചേക്കാം അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ തെറ്റായ ആശയവിനിമയം നോക്കാൻ പോകുന്നു പക്ഷേ ഇത് ആശയവിനിമയത്തിന്റെ പരാജയത്തിന് കാരണമാകുമെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു അയച്ചയാളുടെ സ്വീകർത്താവിന്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഉണ്ടാകുന്ന തടസ്സങ്ങളും ഞങ്ങൾ പ്രത്യേകം പരിശോധിച്ചു പിന്നെ ആ തടസ്സങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ ചർച്ച ചെയ്തു ഏത് തലത്തിലാണ് ഞങ്ങൾ എൻകോഡിംഗ് ഡീകോഡിംഗ് ലെവലിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അവിടെ ഒരു പൊതു കോഡ് പങ്കിടുന്നത് ഇല്ലെങ്കിൽ അത് ഒരു പ്രശ്നമാകാം ആളുകൾക്ക് അത് വ്യത്യസ്ത തലത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഭാഷയ്ക്ക് പോലും ഒരു പൊതു ചട്ടക്കൂട് ഉണ്ടായിരിക്കണം സാധാരണക്കാർക്ക് അത് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാം നിങ്ങൾ അത് വിവിധ കൂട്ടം ആളുകളിലേക്കോ ശാസ്ത്രജ്ഞരുടെയോ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിലേക്കോ കൊണ്ടുപോകുകയാണെങ്കിൽ അർത്ഥം മാറിയേക്കാം അയച്ചയാൾക്ക് തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാഷയുടെ അനുചിതമായ ഉപയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ തടസ്സം ഉണ്ടാകാം സ്വീകർത്താവിന്റെ കാര്യത്തിലും ഇത് സംഭവിക്കാം ഞാൻ നിങ്ങൾക്ക് അധ്യാപക വിദ്യാർത്ഥിയുടെ ഉദാഹരണം നൽകി അവിടെ അധ്യാപകൻ ഇറാഖിന്റെ ദോഷഫലങ്ങൾ ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചു ഇറാഖിന്റെ പ്രതികൂല ഫലങ്ങൾ വിദ്യാർത്ഥിക്ക് സന്ദേശം ശരിയായി മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയാത്തതിനാൽ അത് പൂർണ്ണമായും മറ്റൊരു രീതിയിൽ എടുത്തു കമ്മ്യൂണിറ്റി തടസ്സങ്ങൾ പൊതുവെ മനഃശാസ്ത്രപരമായ സ്വഭാവമുള്ളവയാണ് ആശയവിനിമയത്തിലെ സമാനതയെ ആളുകൾ നിസ്സാരമായി കാണുന്നു പശ്ചാത്തലങ്ങളിലെ വ്യത്യാസങ്ങൾ അവഗണിക്കപ്പെടുന്നു ധാരണയിലെ വ്യത്യാസവും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഘടകങ്ങളും കഴിഞ്ഞ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തു സമാപിക്കുമ്പോൾ സഹാനുഭൂതിയുടെ ഉപയോഗത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് മറികടക്കാനുള്ള തന്ത്രങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഇപ്പോൾ ഇതിൽ നമുക്ക് വ്യക്തിപരമായ ഇടപാടുകളിലേക്കുള്ള തടസ്സങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ മുൻ ആശയം തുടരാൻ പരിമിതമായ റഫറൻസ് ഫ്രെയിം കാരണം ഇത് സംഭവിക്കാം എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ ചില സന്ദർഭങ്ങളിൽ പൊതുവായ സന്ദർഭം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഷ മനസിലാക്കാൻ കഴിയാത്തതോ ആയ ഒരു സന്ദർഭോചിതമായ സാഹചര്യമുണ്ട് കാരണം ആരെങ്കിലും ഒരു സ്ലാംഗ് ഉപയോഗിക്കുന്നു ആരെങ്കിലും ഒരു ജാർഗോൺ ഉപയോഗിക്കുന്നു ഞാൻ ഒരു ലളിതമായ ഉദാഹരണം പറയട്ടെ ഒരു വിദ്യാർത്ഥിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വളരെ നല്ല അവസരം ലഭിച്ചു തുടർന്ന് അവൾ ആദ്യ ദിവസം തന്നെ എത്തി തുടർന്ന് അവൾ വളരെ സന്തുഷ്ടയായിരുന്നു അതിനാൽ അവൾ ബോസിനെ ആകർഷിക്കാൻ ആഗ്രഹിച്ചു അതിനാൽ അവൾ വീണ്ടും വീണ്ടും ബോസിന്റെ അടുത്തേക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ബോസ് പറഞ്ഞു ശാന്തമായിരിക്കൂ ഒരു പ്രശ്നവുമില്ല അതിനാൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കും പിന്നീട് ഉച്ചകഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം അവളെ വിളിച്ചു തുടർന്ന് അവർ വളരെ തിരക്കേറിയ ഒരു മീറ്റിംഗിലായിരുന്നു തുടർന്ന് മറ്റ് നിരവധി കമ്പനികളിൽ നിന്നുള്ള ആളുകൾ വന്നു ചില നിയമപരമായ തർക്കങ്ങളും എന്തോ നടക്കുന്നുണ്ടായിരുന്നു അതിനാൽ തന്റെ മുഴുവൻ തിരക്കിലും ആളുകളുമായി ചർച്ച ചെയ്യുന്നതിൽ അദ്ദേഹം പൂർണ്ണമായും മുഴുകിയിരുന്നു തനിക്ക് ഒരു രേഖ കത്തിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം അവളോട് ചോദിച്ചു നിങ്ങൾക്ക് അത് എനിക്കായി കത്തിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു തുടർന്ന് അദ്ദേഹം ആ രേഖ അവൾക്ക് നൽകി അവൾ രേഖ എടുത്തു അവൾ അവളുടെ ക്യാബിനിലേക്ക് പോയി എന്തുകൊണ്ടാണ് അവൻ എന്നോട് അത് കത്തിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് അവൾ ചിന്തിച്ചു അതിനാൽ ഞാൻ അത് നശിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അത് വളരെ സുരക്ഷിതമായിരിക്കും അതിനാൽ അവൾ ഒരു തീപ്പെട്ടി എടുത്തു തുടർന്ന് അത് കത്തിച്ചു തുടർന്ന് ചാരം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന് ഉറപ്പാക്കുകയും തുടർന്ന് ചവറ്റുകുട്ടയിൽ ശരിയായി ഇടുകയും ചെയ്തു തുടർന്ന് അവൾ തന്റെ ആദ്യ ജോലി വളരെ ഭംഗിയായി ചെയ്തു പലപ്പോഴും മണിക്കൂറുകൾക്ക് ശേഷം പ്രകോപിതനായ ബോസ് അവളെ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു നിങ്ങൾ ഇതുവരെ അത് കത്തിച്ചിട്ടില്ലേ അതിനാൽ അവൾ പറഞ്ഞു ഞാൻ അത് കത്തിച്ചു സർ പിന്നെ അത് എവിടെയാണ് പകർപ്പ് എവിടെയാണ് ഇപ്പോൾ അത് അവൾക്ക് തോന്നി ഇവിടെ പൊള്ളലേറ്റിരിക്കാം എന്നതിനർത്ഥം ഞങ്ങളുടെ ദിവസങ്ങളിൽ നിങ്ങൾ ബേണിംഗ് സീരീസ് ഉപയോഗിക്കുന്ന രീതി പോലെ തന്നെ ഓഫീസ് ഭാഷയിൽ വ്യത്യസ്തമായ എന്തെങ്കിലും അർത്ഥമാക്കുന്നു ഡിവിഡി കത്തിക്കുന്നു എന്നതിനർത്ഥം യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോകോപ്പി എടുക്കുക ഇതിന്റെ ഒരു ചിത്രം എടുക്കുക ഇതിന്റെ ഒരു പകർപ്പ് ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ ബോസ് വളരെ ദേഷ്യപ്പെട്ടു എന്ന് പറയേണ്ടതില്ലല്ലോ കാരണം അത് ഏകദേശം 50 വർഷമായി അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു രേഖയായിരുന്നു അദ്ദേഹം അവളെ വിശ്വസിക്കുകയും ഒറ്റ നിമിഷം കൊണ്ട് കമ്പനി കെട്ടിപ്പടുത്ത നന്മയെ അവൾ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു അവൾ ചേർന്ന ആദ്യ ദിവസം തന്നെ അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ ഉപയോഗിച്ചതും അവളുടെ പരിമിതമായ റഫറൻസ് ഫ്രെയിം കാരണം അവൾക്ക് മനസ്സിലാകാത്തതുമായ സ്ലാംഗുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അറിവില്ലായ്മയാണ് കാരണം ഇപ്പോൾ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം എന്നാൽ കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ പരസ്പര ഇടപാടുകളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുടെ മറ്റ് ചില വശങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് വൈകാരിക ഇടപെടൽ മിക്കപ്പോഴും വ്യക്തിപരമായ ഇടപാടുകളിൽ വികാരങ്ങളാണ് ഒരു പ്രധാന തടസ്സമായി പ്രവർത്തിക്കുന്നത് വൈകാരിക പ്രതികരണങ്ങൾ നിഷേധാത്മക മനോഭാവങ്ങൾ തെറ്റായ സമയം ആരെങ്കിലും എന്തെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല തുടർന്ന് നിങ്ങൾ പോയി ആ വ്യക്തിക്ക് താൽപ്പര്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഇത് ഒരു വൈകാരിക തടസ്സം സൃഷ്ടിക്കും തീവ്രമായ വികാരപ്രകടനം പോലും സന്ദേശത്തെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട് അത് പോസിറ്റീവ് ആയ സ്നേഹമായിരിക്കാം പക്ഷേ അത് വിദ്വേഷം അസൂയ കോപം സന്തോഷം ദുഃഖം എന്നിവയാകാം എല്ലാവർക്കും ഇടപെടലുകളായി പ്രവർത്തിക്കാൻ കഴിയും ഊഷ്മളത നൽകാനോ കൈ കുലുക്കാനോ പുഞ്ചിരിക്കാനോ നമസ്തേ പറയാനോ വേണ്ടി എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരാൾ ഊഷ്മളത നൽകാനോ കൈ കുലുക്കാനോ പുഞ്ചിരിക്കാനോ നമസ്തേ പറയാനോ മാത്രമാണ് അതിനാൽ ഇവയെല്ലാം സാംസ്കാരികമായി നൽകപ്പെട്ടവയാണ് എന്നാൽ നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന വസ്തുത പരിഗണിക്കാതെ തടസ്സങ്ങളായി പ്രവർത്തിക്കുന്നു ഭയം ഭയം തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്ന തെറ്റിദ്ധാരണ കോപം കയ്പ്പ് വിദ്വേഷം അസൂയ സംശയം അവിശ്വാസം ദുഃഖം ഉത്കണ്ഠ താഴ്ന്ന ആത്മാഭിമാനം തുടങ്ങിയ ചില നിഷേധാത്മക വികാരങ്ങളും ഒരു തടസ്സമായി ദുരിതമായി സമ്മർദ്ദമായി പ്രവർത്തിക്കും പിന്നെ ആരോഗ്യ ക്ഷീണത്തിന്റെ കാര്യത്തിൽ അതായത് ആരെങ്കിലും അമിതമായി ജോലി ചെയ്താൽ ആ വ്യക്തിക്ക് തനിക്ക് മുമ്പിലുള്ള ആശയവിനിമയത്തിൽ വൈകാരികമായി പ്രതിബദ്ധത പുലർത്താൻ കഴിയില്ല അനാരോഗ്യം വേദന ഏതെങ്കിലും തരത്തിലുള്ള ശരീര വേദന ആരെങ്കിലും പനി ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം വീണ്ടും അത് വ്യക്തിയെ ആന്തരികമായി ബാധിക്കും മാനസികമായി ആ വ്യക്തിക്ക് തനിക്ക് അല്ലെങ്കിൽ അവൾക്ക് തൊട്ടുമുമ്പുള്ള ഒരാളുമായി ഇടപഴകാൻ കഴിയില്ല ഇപ്പോൾ വൈകാരിക ഇടപെടൽ നെഗറ്റീവ് വികാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മറ്റ് രസകരമായ വശങ്ങൾ പോസിറ്റീവിനേക്കാൾ കൂടുതൽ ഇടപെടുന്നു അതിനാൽ നിങ്ങൾ സാധാരണയായി പോസിറ്റീവ് വികാരങ്ങളെക്കുറിച്ച് കൂടുതൽ വിഷമിക്കേണ്ടതില്ല കാരണം അവ നെഗറ്റീവ് വികാരങ്ങളെപ്പോലെ ദോഷകരമല്ല ഉദാഹരണത്തിന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന മനോഭാവത്തോടെയും ആധിപത്യ മനോഭാവത്തോടെയും പോയാൽ അത് മറുവശത്തുള്ള വ്യക്തിയെ പ്രതിരോധാത്മകനാക്കുന്നു മറ്റേ വ്യക്തി സന്ദേശങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ അവഗണിക്കുകയോ അമിതമായി പ്രതികരിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് ആ വ്യക്തി പ്രതിരോധത്തിലാകുകയും അവൻ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുകയും ചെയ്യും അവൻ ഒരു അടിച്ചമർത്തൽ തരത്തിലുള്ള അവസ്ഥയിലാണ് അതിനാൽ ആശയവിനിമയത്തിൽ വീണ്ടും ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നതിന് ഞാൻ എന്നെത്തന്നെ പ്രതിരോധിക്കണം അപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു പ്രധാന തടസ്സമായി പ്രവർത്തിക്കാൻ കഴിയും ഇത് ഭാഷയെക്കുറിച്ചുള്ള രസകരമായ കാര്യമാണ് ഞങ്ങൾ ഭാഷാ ഗെയിമുകൾ കളിക്കുമ്പോഴെല്ലാം നിങ്ങൾക്കറിയാം തുടർന്ന് ഞങ്ങൾ കാര്യങ്ങൾ നേരിട്ട് പറയുന്നില്ല ആളുകൾ അത് ശരിയായി മനസ്സിലാക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആശയവിനിമയം പലപ്പോഴും പരിമിതമായ റഫറൻസ് ചട്ടക്കൂടുകളോടെ ധാരാളം അനുമാനങ്ങളും അനുമാനങ്ങളും പങ്കിട്ട അർത്ഥങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം എന്നിട്ടും രണ്ട് അർത്ഥങ്ങളുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ആസ്വദിക്കുന്നു ചിലപ്പോൾ ഒരേ അക്ഷരങ്ങൾ ഉണ്ട് പക്ഷേ ഉച്ചാരണവും അർത്ഥവും വ്യത്യസ്തമാണ് കാരണം അവ വ്യാകരണപരമായി വ്യത്യസ്ത വിഭാഗങ്ങളായതിനാൽ ഞാൻ ഇവിടെ നൽകിയ ചില ഉദാഹരണങ്ങളിൽ ക്രിയയും നാമവും ആകാം അതിനാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യാകരണ വിഭാഗം സാഹചര്യം വാക്ക് ഉപയോഗിക്കുന്ന സ്ഥലം അത് വീണ്ടും ഉച്ചരിക്കുന്ന രീതി എന്നിവ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഒരേ വാക്ക് വ്യത്യസ്ത ഉച്ചാരണങ്ങളിലും വ്യത്യസ്ത അർത്ഥത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങൾ നോക്കൂ ആദ്യത്തെ ഉദാഹരണം നോക്കൂ നമ്മുടെ പൂന്തോട്ടത്തിന് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ വിളവ് നമ്മുടെ പൂന്തോട്ടത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ അത് എത്രത്തോളം വളരുമെന്ന പ്രവർത്തനമാണ് അടുത്തത് നോക്കൂ അവർ പ്രാദേശിക തിയേറ്ററിൽ പദ്ധതി അവതരിപ്പിക്കാൻ പോകുകയായിരുന്നു അത് പവർ പോയിന്റിന്റെ രൂപത്തിലായിരിക്കാം ഒരു വീഡിയോയുടെ രൂപത്തിലായിരിക്കാം അവർ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു അത് ഒരു പ്രൊജക്ടറിൽ കാണിക്കുന്നു അത് പ്രാദേശിക തിയേറ്ററിൽ നടത്തുന്ന സർവേയുടെ രേഖാമൂലമുള്ള ഭാഗമാണ് അവരുടെ റെക്കോർഡ് റെക്കോർഡ് ചെയ്യുന്നതിനായി ബാൻഡ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തു റെക്കോർഡ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു തരം സംഭരണമാണ് റെക്കോർഡ് യഥാർത്ഥത്തിൽ ആ നിമിഷം അത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അടുത്തത് ഒരുപോലെ രസകരമാണ് ബാൻഡേജ് മുറിവേൽപ്പിച്ചു മുറിവ് അതിനെ വൃത്താകൃതിയിലാക്കുന്നത് പോലെയാണ് തുടർന്ന് മുറിവിനു ചുറ്റും എന്തോ ചുറ്റിക്കറങ്ങുന്നത് പോലെയാണ് മുറിവ് പരിക്കാണ് മറ്റൊരു രസകരമായ ഉദാഹരണം ഞങ്ങൾ പോളിഷ് ഫർണിച്ചറുകൾ പോളിഷ് ചെയ്യണം അതിനാൽ നിങ്ങൾ തിളക്കം നിങ്ങൾ തിളക്കം നൽകുന്നു പക്ഷേ പോളിഷ് ജനതയിൽ നിന്ന് പോളണ്ടിൽ നിന്ന് വന്ന ഫർണിച്ചറുകൾ പോളിഷ് ചെയ്യുന്നു വർത്തമാനകാലത്തെപ്പോലെ സമയമില്ലാത്തതിനാൽ സമ്മാനം നൽകാനുള്ള സമയമാണിതെന്ന് അദ്ദേഹം കരുതി മൂന്നാമത്തെ സമ്മാനം സമ്മാനമാണ് ആദ്യത്തേത് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന സമയമാണ് രണ്ടാമത്തേത് നൽകുന്ന പ്രവൃത്തിയും മൂന്നാമത്തേത് സമ്മാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരേ വാക്ക് ഒരേ അക്ഷരവിന്യാസം അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ മൂന്ന് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഞാൻ നൽകിയ അവസാന ഉദാഹരണം രസകരമാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ചെലവഴിച്ചു അടുത്തത് അതേ അക്ഷരവിന്യാസം പക്ഷേ ഇത് വൈകുന്നേരമല്ല ഈവനിൽ നിന്ന് വൈകുന്നേരമാണ് നിങ്ങൾ എന്തെങ്കിലും പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ അത് സുഗമമാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ അത് പരത്താൻ ശ്രമിക്കുന്നു അസമമായ ചില കാര്യങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു തുടർന്ന് നിങ്ങൾ അവ നേരെയാക്കുന്നു നിങ്ങൾ അവ ക്രമീകരിക്കുന്നു അതിനാൽ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു മാലിന്യം കൂമ്പാരത്തിൽ ചെലവഴിച്ചു ആളുകൾ ഇത് മറ്റൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആളുകൾ ഇത് വ്യത്യസ്തമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഭാഷയും ഈ പ്രശ്നത്തിന് കാരണമാകും അതിനാൽ ഈ പ്രശ്നങ്ങളിൽ ചിലത് നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും ഉദാഹരണത്തിന് ടെലിഫോണിലോ വ്യക്തിപരമായോ ഞങ്ങൾ സംഘർഷം പരിഹരിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആരെങ്കിലും കോപാകുലമായ സ്വരം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശബ്ദം താഴ്ത്തുകയും നിങ്ങൾ ശാന്തത നിലനിർത്തുകയും വേണം അയച്ചയാൾ ആശങ്ക പ്രകടിപ്പിക്കുകയും വിശ്വാസം നേടുകയും സ്വീകർത്താവിന്റെ കണ്ണിൽ വിശ്വാസ്യത സ്ഥാപിക്കുകയും വേണം പ്രത്യേകിച്ചും എന്തെങ്കിലും അവതരിപ്പിക്കുന്നതിന് മുമ്പ് സ്ഥിരവും പ്രവചനാതീതവുമായ പെരുമാറ്റത്തിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ അതായത് ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങൾ ആശയവിനിമയത്തിൽ വിശ്വാസം നേടണം നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ആളുകൾ നിങ്ങളെ വിശ്വസിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഉയർന്ന അധികാരിയാണെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തെ കമ്പനിയിൽ എന്തെങ്കിലും അവതരിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇത് അവതരിപ്പിക്കുകയാണെന്ന് ആളുകൾ ഭയപ്പെടുന്നു ഇത് ഒരു പുതിയ യന്ത്രമാണെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഓഫീസും ഓട്ടോമേറ്റഡ് ആകുമെന്നും പുതിയ സോഫ്റ്റ്വെയർ വരുമെന്നും പുതിയ കമ്പ്യൂട്ടറുകൾ വരുമെന്നും അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ കമ്പ്യൂട്ടറുകളിലൂടെ മാത്രമേ എല്ലാം ഉപയോഗിക്കാവൂ എന്നും നിങ്ങൾ പറയുന്നു ഇപ്പോൾ ആളുകൾക്ക് മാറ്റത്തെ ഭയപ്പെടും ആളുകൾ പ്രതിരോധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അത് വിദ്യാഭ്യാസത്തിലൂടെയും പരിചയത്തിലൂടെയും മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ നിങ്ങൾ അവരെ ബോധവൽക്കരിക്കണം നിങ്ങൾ അവർക്ക് പരിശീലന കോഴ്സുകൾ നൽകണം നിങ്ങൾ അവരെ വീഡിയോകളിൽ കാണിക്കണം നിങ്ങൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കണം നിങ്ങൾ അവരെ കാണിക്കണം അവരെ പരിചയപ്പെടുത്തണം അവർക്ക് ആദ്യം അനുഭവം നൽകണം തുടർന്ന് ഇത് നിരുപദ്രവകരമാണെന്ന് അവർ അംഗീകരിക്കുന്നു സാങ്കേതികവിദ്യ മികച്ചതാണ് അത് എന്നെ സഹായിക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ തെറ്റായ സമയക്രമവും വ്യക്തിപരമായ ഇടപാടുകൾക്ക് ഏറ്റവും വലിയ തടസ്സമാകാം അതിനാൽ ഒരാൾ ഏറ്റവും മികച്ച മാനസിക നിമിഷം തിരഞ്ഞെടുക്കണം ഇപ്പോൾ തൊഴിലാളി ശമ്പള വർദ്ധനവ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ബോസിന് ഇതിനകം ആയിരക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു തുടർന്ന് അവൻ വളരെ ദുഃഖിതനാണ് തുടർന്ന് ഒരൊറ്റ ഇടപാടിൽ അവൻ നഷ്ടപ്പെട്ടു അവന് ധാരാളം പണം നഷ്ടപ്പെട്ടു തുടർന്ന് ഈ വ്യക്തി അകത്തേക്ക് പോകുകയും തുടർന്ന് അവൻ സ്ഥാനക്കയറ്റവും കുറച്ച് വർദ്ധനവും ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതിനാൽ തീർച്ചയായും ബോസ് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ അതേ ബോസ് ഒരു ബിസിനസ്സ് വിജയം നേടി തുടർന്ന് അവൻ ധാരാളം പണം സമ്പാദിച്ചു അപ്പോൾ അവൻ വളരെ സന്തുഷ്ടനാണ് ആ സമയത്താണ് ഈ വ്യക്തി പ്രവേശിച്ച് സർ എന്ന് പറയുന്നത് തുടർന്ന് അവൻ എന്താണ് ചോദിക്കുന്നത് തുടർന്ന് നിങ്ങൾ ഈ പ്രോജക്റ്റിൽ എന്നെ സഹായിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണെന്നും നിങ്ങൾ അത് വളരെ നന്നായി ചെയ്തുവെന്നും ബോസ് തന്നെ അഭിനന്ദിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തുടർന്ന് ആ വ്യക്തി സർ എനിക്ക് ഒരു അവധിക്കാലം വേണമെന്ന് പറയുന്നു തുടർന്ന് നിങ്ങൾക്ക് അത് പരിഗണിക്കാമെങ്കിൽ ഞാൻ വർദ്ധനവിനും സ്ഥാനക്കയറ്റത്തിനും അപേക്ഷിച്ചു അതിനാൽ അത് ശരിയാണെന്ന് ബോസ് പറയും നിങ്ങൾക്ക് പോകാം നിങ്ങൾ അവധിക്കാലം ആസ്വദിക്കാം അതിനാൽ ശരിയായ സമയം തിരഞ്ഞെടുക്കുന്നതും ഏറ്റവും മികച്ച മാനസിക നിമിഷത്തിന്റെ തിരഞ്ഞെടുപ്പും വളരെ പ്രധാനമാണ് ഒരു സിനിമയിൽ നായകൻ നായികയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും തുടർന്ന് പുഞ്ചിരിക്കുകയും അതിനുശേഷം അവൻ ധൈര്യം സംഭരിക്കുകയും അവൾക്ക് തന്നോട് യഥാർത്ഥത്തിൽ താൽപ്പര്യമുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി തോന്നുകയും തുടർന്ന് അയാൾ ഒരു കാർഡ് നൽകുകയും അവളെ ഇഷ്ടമാണെന്നും അവളെ തന്റെ ജീവിതപങ്കാളിയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുകയും ചെയ്യുന്ന ഒരു സിനിമ ഞാൻ ഓർക്കുന്നു എന്നാൽ പെൺകുട്ടി ഏകദേശം 3 ദിവസത്തേക്ക് ഒന്നും പറയുന്നില്ല തുടർന്ന് അടുത്ത 3 ദിവസത്തേക്ക് അവൾ വരുന്നില്ല ഇപ്പോൾ നായിക ഒന്നും പറയാത്തതിനാൽ നായകന് കടുത്ത ഹൃദയ വേദന അനുഭവപ്പെടുന്നു പിന്നീട് നായിക ഈ വ്യക്തിയെ ശരിക്കും ഇഷ്ടപ്പെടുന്നുവെന്ന് നമ്മോട് പറയപ്പെടുന്നു പക്ഷേ അവൾ അത് പ്രകടിപ്പിച്ചില്ല കാരണം അവൻ അത് നൽകിയ ദിവസം തന്നെ അവളുടെ സഹോദരി ആത്മഹത്യ ചെയ്തു സഹോദരി ഒളിച്ചോടിയതിൽ അച്ഛന് ഭയങ്കര ദേഷ്യമുണ്ടായിരുന്നു തുടർന്ന് പിതാവ് അവളുടെ ചോയ്സ് അംഗീകരിച്ചില്ല അതിനാൽ അവൻ തന്റെ പങ്കാളിയുമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അത് അവളെ ബാധിച്ചു അത് അവളെ ഒരു ആഘാതത്തിലാക്കി ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അവൾ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായി അതിനാൽ ബന്ധം അംഗീകരിക്കാൻ അവൾക്ക് കുറച്ച് പക്വത നൽകുന്നതിന് സമയം ആവശ്യമായിരുന്നു ഏറ്റവും മികച്ച മാനസിക നിമിഷം അദ്ദേഹം യഥാർത്ഥത്തിൽ നിർദ്ദേശം നൽകിയ ഒന്നല്ല അതിനാൽ എല്ലാത്തരം മാനുഷിക ഇടപെടലുകളിലും ഏറ്റവും മികച്ച മനഃശാസ്ത്രപരമായ നിമിഷം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് അങ്ങനെ അത് വിജയിക്കും നമുക്ക് ചില ഭാഷാ തടസ്സങ്ങൾ കൂടി നോക്കാം ഇവ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം ഒരേ വാക്കുകൾക്ക് വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിൽ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത കാര്യങ്ങൾ എങ്ങനെ അർത്ഥമാക്കാം എന്നതിന് കൂടുതൽ ഉദാഹരണങ്ങൾ ചൈനയിലെ കൊക്കക്കോള പോലെയുള്ള ഒരു ഉദാഹരണം കെയ്കോ കേല എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ടു ഇപ്പോൾ ചൈനീസ് ഭാഷയിൽ അതിനർത്ഥം ഭാഷയെ ആശ്രയിച്ച് മെഴുക് നിറച്ച മെഴുക് ടാഡ്പോൾ അല്ലെങ്കിൽ പെൺ കുതിരയെ കടിക്കുക എന്നാണ് പിന്നീട് അവർ കൊക്കോ കോളിലേക്ക് മാറി അതായത് വായിൽ സന്തോഷം എന്നാണ് അർത്ഥം അതിനാൽ അവർ ഇത് മാറ്റിയപ്പോൾ ആളുകൾ ഇത് കൂടുതൽ വാങ്ങാൻ തുടങ്ങി കാരണം ഇത് സാംസ്കാരികമായി അവർക്ക് തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും അർത്ഥമാക്കുന്നു തുടർന്ന് മുമ്പ് നൽകിയ മറ്റ് നെഗറ്റീവ് അർത്ഥങ്ങൾക്ക് പകരം അവർക്ക് വായിൽ യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ചിലപ്പോൾ വിവർത്തനത്തിൽ അർത്ഥം നഷ്ടപ്പെടാം തെക്കേ അമേരിക്കയിൽ ജനറൽ മോട്ടോഴ്സ് ചെവി നോവ അവതരിപ്പിച്ചപ്പോൾ ഈ ഉദാഹരണം എടുക്കുക കാർ തുടക്കത്തിൽ വിൽക്കപ്പെട്ടില്ല തുടർന്ന് അവർ അത് കണ്ടെത്തി നോവ അതായത് യഥാർത്ഥത്തിൽ പുതുമയുള്ള എന്തെങ്കിലും അർത്ഥമാക്കുന്നു അത് യഥാർത്ഥത്തിൽ വിവർത്തനത്തിൽ അർത്ഥമാക്കുന്നത് അത് പോകില്ല എന്നാണ് അതിനാൽ അത് വിരോധാഭാസമായിരുന്നു കാരണം പോകാത്ത ഒരു കാർ ആരാണ് വാങ്ങുക തുടർന്ന് അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കി തുടർന്ന് അവർ സ്പാനിഷ് വിപണികളിൽ കാറിനെ കാരിബ് എന്ന് പുനർനാമകരണം ചെയ്തു അതിനാൽ ഇത് കരീബിയൻ ആണെന്ന് സൂചിപ്പിക്കുന്നത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അവർക്ക് അത് അഭിമാനത്തോടെ സ്വന്തമാക്കാമെന്നും സൂചിപ്പിക്കുന്നു അതിനാൽ അത് മുഴുവൻ വിപണിയെയും മാറ്റുകയും തുടർന്ന് ആളുകൾ അത് സന്തോഷത്തോടെ വാങ്ങാൻ തുടങ്ങുകയും ചെയ്തു അതിനാൽ ഭാഷയുടെ കാര്യത്തിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് ഒരിക്കൽക്കൂടി പറയാം നിങ്ങൾ ഒരു അവ്യക്തമായ അല്ലെങ്കിൽ പോളിസെമസ് വാക്ക് ഉപയോഗിക്കുമ്പോൾ പോളിസെമസ് വാക്കിന് നിരവധി അർത്ഥങ്ങളുണ്ട് ഇപ്പോൾ മറ്റേ വ്യക്തിയോട് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അർത്ഥം എന്താണെന്ന് സന്ദർഭം വളരെ വ്യക്തമാക്കുക ദയവായി അത് വ്യക്തമാക്കുകയും തെറ്റായ ആശയവിനിമയത്തിന് കാരണമായേക്കാവുന്ന ഉച്ചാരണത്തിലെ ഏതെങ്കിലും സാംസ്കാരിക വ്യതിയാനം മനസിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ പോസിറ്റീവ് നോൺ വെർബൽ ആംഗ്യങ്ങളുമായി ബന്ധപ്പെടുത്തുക നമ്മൾ നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ച് കുറച്ച് പ്രഭാഷണങ്ങൾ ചെലവഴിക്കാൻ പോകുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നു നിങ്ങളുടെ ശരീരഭാഷയ്ക്കും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് അതിനാൽ നിങ്ങൾ പോസിറ്റീവ് ആയി എന്തെങ്കിലും പറയുകയാണെന്ന് അത് യഥാർത്ഥത്തിൽ മറ്റ് വ്യക്തികളെ നിങ്ങളുടെ കൈ ആംഗ്യങ്ങളാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നെഗറ്റീവ് ഒന്നല്ല ഇത് നിങ്ങൾക്ക് പോലും ഭാഷ മനസ്സിലാകാത്ത സാംസ്കാരികമായി വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഒരു വിവർത്തകന്റെയോ പ്രാദേശിക പ്രഭാഷകന്റെയോ സഹായം തേടുക അതിനാൽ ഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം അജ്ഞത അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന പരിമിതമായ ചട്ടക്കൂട് കാരണം നിങ്ങൾ തെറ്റുകൾ വരുത്താൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ ഇത് വീണ്ടും നിങ്ങളെ സഹായിക്കും പരസ്പര ബന്ധങ്ങളിൽ ഒരുതരം സംഘർഷമോ തെറ്റിദ്ധാരണയോ ഉണ്ടെന്ന് നിങ്ങൾ കരുതുമ്പോഴെല്ലാം നിങ്ങൾക്ക് മൊത്തത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയും നിങ്ങൾ ഒരു സജീവ ശ്രോതാവായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുക വ്യക്തത തേടുക നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ അർത്ഥം എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് ഒരിക്കലും കരുതരുത് ഓർക്കുക നമ്മൾ എന്തെങ്കിലും പറഞ്ഞുവെന്നും അത് 100 ശതമാനം ഫലപ്രദമായി ആശയവിനിമയം നടത്തിയെന്നും ചിന്തിക്കുന്ന നമ്മിൽ മിക്കവർക്കും ഉള്ള പൊതുവായ തെറ്റിദ്ധാരണയാണിത് അതാണ് നമുക്ക് ഉള്ള മിഥ്യാധാരണ അതിനാൽ നിങ്ങളുടെ ആശയവിനിമയ അർത്ഥം എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് ഒരിക്കലും കരുതരുത് നിങ്ങൾ അത് ശരിയാക്കുക നിങ്ങളുടെ സന്ദേശത്തെക്കുറിച്ച് വ്യക്തവും കൃത്യവുമാണെന്ന് പറയുമ്പോഴെല്ലാം ആവശ്യമില്ലാത്ത അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത് അവർക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ പാരഫ്രേസ് സംഗ്രഹിക്കാൻ ശ്രമിക്കുക ബുദ്ധിമുട്ടുള്ളവ ലളിതമായ വാക്കുകളിൽ വ്യാഖ്യാനിക്കുക നിങ്ങൾക്ക് സംഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കായി സംഗ്രഹിക്കാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുകയും സജീവമായ ഒരു ശ്രോതാവെന്ന നിലയിൽ ശ്രദ്ധാപൂർവ്വം ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുക ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാലും തടസ്സപ്പെടുത്തരുത് കാരണം നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ശരിക്കും താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളേക്കാൾ നിങ്ങളുടെ വിമർശകരിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം സുഹൃത്തുക്കൾ പൊതുവെ മര്യാദയുള്ളവരാണ് തുടർന്ന് അവർ നിങ്ങളെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ശത്രുക്കളോ വിമർശകരോ ആണ് നിങ്ങളെ കർക്കശമായി വിമർശിക്കുന്നത് തുടർന്ന് നിങ്ങളിലെ നിഷേധാത്മക ഗുണങ്ങൾ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്ന പരിമിതികളെക്കുറിച്ച് നിങ്ങളോട് പറയുകയും ഒരു വിമർശനം നൽകുമ്പോഴെല്ലാം നിങ്ങൾ ആത്മപരിശോധനയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവരുടെ മുന്നിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ വിമർശിക്കുന്നയാൾക്ക് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തി മറ്റൊന്നിനെ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുമെന്നും നിങ്ങൾക്കെതിരെ പോസ്റ്റ് മറ്റൊന്നിനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കെതിരെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഏത് വിമർശനവും നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇപ്പോൾ സാങ്കേതികവിദ്യയുടെയും ആശയവിനിമയത്തിന്റെയും കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേഗത്തിൽ തിരിച്ചെടുക്കുമ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞ ഉദ്ധരണി ഞാൻ പരാമർശിച്ചു അവിടെ സാങ്കേതികവിദ്യ നമ്മുടെ മനുഷ്യ ഇടപെടലിനെ മറികടക്കുന്ന ദിവസം ലോകത്തിന് വിഡ്ഢികളുടെ ഒരു തലമുറ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഇപ്പോൾ നെറ്റിൽ ലഭ്യമായ ഈ ചിത്രം ആളുകൾ എങ്ങനെ മൊബൈൽ അടിമകളായിത്തീർന്നുവെന്നും സുഹൃത്തുക്കളോടൊപ്പം കാപ്പി കുടിക്കുകയോ കടൽത്തീരത്ത് ഒരു ദിവസം ചെലവഴിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അടുപ്പമുള്ള നിമിഷങ്ങളിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു പര്യടനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ കാഴ്ചകൾ ആസ്വദിക്കുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ആളുകളുമായി അത്താഴം കഴിക്കുമ്പോഴോ സാങ്കേതികവിദ്യ എല്ലാത്തരം ആശയവിനിമയങ്ങളെയും എങ്ങനെ പൂർണ്ണമായും വ്യാപിപ്പിച്ചുവെന്നും കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾ മൊബൈലിലേക്ക് നോക്കുമ്പോഴെല്ലാം നിങ്ങൾ മനുഷ്യരെ നോക്കുന്നില്ല നിങ്ങൾ കണ്ണുമായി സമ്പർക്കം പുലർത്തുന്നില്ല ഇപ്പോൾ ഈ സാങ്കേതികവിദ്യ ശരിക്കും ഈ തലത്തിലെത്തി അത് വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു മൊബൈൽ ടെലിഫോൺ ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ധാരാളം നുറുങ്ങുകൾ നൽകി പക്ഷേ ആശയവിനിമയത്തിന്റെ കാര്യത്തിലും സാങ്കേതികവിദ്യ കാരണം വരാനിരിക്കുന്ന തടസ്സങ്ങളെക്കുറിച്ചും ഒരു സമാപന ചിന്തയായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആരെയെങ്കിലും വ്യക്തിപരമായി കാണാൻ കഴിയുകയും തുടർന്ന് നിങ്ങൾ ഫോണിൽ ആ വ്യക്തിയുമായി സംസാരിക്കേണ്ടതില്ലെങ്കിൽ അത് ചെയ്യുകയും ഉചിതമായ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ ആശയവിനിമയത്തിനായി നിങ്ങൾക്ക് ഏതുതരം സാങ്കേതിക സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ നിങ്ങൾക്ക് സംസാരിക്കുന്ന രൂപം രേഖാമൂലമുള്ള രൂപം നോൺ വെർബൽ രൂപം എന്നിവ മൂന്നും ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ടിവരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനും അത് നിങ്ങൾ എഴുതുന്ന വ്യക്തിക്ക് അയയ്ക്കാനും കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നു ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് വളരെ ലജ്ജാകരമായ ഒരു ചോദ്യം ചോദിക്കുന്നുവെന്ന് പറയട്ടെ നിങ്ങൾക്ക് പുഞ്ചിരിക്കാം തുടർന്ന് നിങ്ങൾക്ക് അതിൽ അഭിപ്രായമിടാനും നിങ്ങൾ ഉപയോഗിക്കുന്ന ചാനലിൽ അഭിപ്രായം പറയാനും ആഗ്രഹിക്കുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ മുഖാമുഖം ആശയവിനിമയം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണോ അല്ലെങ്കിൽ ഒരു തലത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ടെലിഫോൺ കോൺഫറൻസ് മോഡ് ഉപയോഗിക്കുമോ നിങ്ങൾ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾ ബഹുജന ആശയവിനിമയത്തിനായി റേഡിയോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ടെലിവിഷൻ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ ഉപയോഗിക്കും അല്ലെങ്കിൽ കൈയ്യക്ഷരം അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ എസ്എംഎസ് ഇപ്പോൾ ആവശ്യമായ ഉചിതമായ ആശയവിനിമയ രീതി ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉചിതമായ മാധ്യമം നിങ്ങൾ തീരുമാനിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് മുഖാമുഖം ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിൽ മിക്ക കേസുകളിലും എസ്എംഎസ് അല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കരുത് നിങ്ങൾക്ക് ഇമെയിൽ വഴി എന്തെങ്കിലും അയയ്ക്കാൻ കഴിയുമെങ്കിൽ തിരിച്ചും ശരിയാണ് ആ വ്യക്തിയെ മുഖാമുഖം കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടതില്ല പ്രത്യേകിച്ചും ദൂരം കൂടുതലാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇമെയിൽ പോലും ഉപയോഗിക്കാം എന്നാൽ അവസാനത്തെ പ്രധാന കാര്യം അമിത ഉപയോഗം ഒഴിവാക്കുക എന്നതാണ് അതായത് ഇമെയിൽ മര്യാദകളിലും നെറ്റിക്വറ്റിലും പ്രഭാഷണത്തിൽ ഞങ്ങൾ വളരെയധികം ചർച്ച ചെയ്ത നിരവധി മെയിലുകൾ അയയ്ക്കുക പക്ഷേ ഇപ്പോഴും ഓർക്കുക ദൈർഘ്യമേറിയ ഇമെയിലുകൾ അയയ്ക്കരുത് അതിന് പണം നൽകാൻ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിലും നീണ്ട ഫോൺ കോളുകൾ വിളിക്കരുത് ദീർഘനേരം ഫോൺ കോളുകൾ വിളിക്കരുത് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സ് പോലെയായിരിക്കുകയും അത് അടുപ്പമുള്ള ഒന്നാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത സ്പർശനത്തിൽ ചിലത് ചേർക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങളുടെ സമയം ലാഭിക്കുന്നതിനായി അവസാനിപ്പിക്കുക തുടർന്ന് മറ്റൊരാളുടെ സാങ്കേതികവിദ്യയുടെ ദുരുപയോഗത്തെ ബഹുമാനിക്കുക പ്രത്യേകിച്ച് ഫോൺ മുതലായവ നിങ്ങൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു അഭിമുഖത്തിന് പോയ എസ്എംഎസ് ഉപയോഗിച്ച് രഹസ്യാത്മക കാര്യങ്ങൾ ചോദിക്കുകയും തുടർന്ന് ഈ അഭിമുഖത്തിൽ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് സർവകലാശാലയുടെ വൈസ് ചാൻസലർക്കോ വകുപ്പ് മേധാവിക്കോ ഒരു എസ്എംഎസ് അയയ്ക്കുകയും ചെയ്യുക ഇപ്പോൾ ഏകദേശം 100 ശതമാനം ആരും ഈ എസ്എംഎസിനോട് പ്രതികരിക്കില്ല നിയമപരമായ ബാധ്യതകളുണ്ട് എസ്എംഎസിലൂടെ വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയാത്ത പ്രതിബദ്ധതകളുണ്ട് നിങ്ങൾ ഇമെയിൽ വഴി ചോദിച്ചാലും ചിലപ്പോൾ ഫോണിൽ പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് അത് വെളിപ്പെടുത്താൻ കഴിയില്ല അതിനാൽ ആ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് രഹസ്യാത്മകമായ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ നിങ്ങൾ അത് ചോദിക്കുമ്പോൾ അത് നല്ലതായി തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് മെസഞ്ചർ വാട്ട്സ്ആപ്പ് മെസഞ്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെസഞ്ചർ ഉള്ളപ്പോൾ ഏറ്റവും മോശം ഉപയോഗം സംഭവിക്കുന്നു അതിൽ നിങ്ങൾക്ക് ചില ബട്ടണുകളുടെ സ്പർശനത്തിൽ മറുവശത്ത് മറ്റൊരാൾക്ക് ചില ബട്ടണുകളുടെ സ്പർശനത്തോടെ മറ്റേ അറ്റത്ത് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അയയ്ക്കുക നിങ്ങൾ ഉചിതമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ നിങ്ങൾ കാണേണ്ടതുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയോട് വന്ന് ഒരു പ്രോഗ്രാം സംയോജിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു തുടർന്ന് അദ്ദേഹം നിങ്ങളുടെ സൌഹൃദത്തെ ബഹുമാനിച്ചതിനാൽ നമ്പർ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഐപിയാണെന്ന് നമുക്ക് പറയാം എന്നാൽ നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ദിവസം ഈ പ്രോഗ്രാമിലേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സമയത്ത് വാട്ട്സ്ആപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അയയ്ക്കുന്നത് മറ്റൊരാളെ വ്രണപ്പെടുത്തും കാരണം സാധാരണ മാന്യത അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അവിടെ പോകുമ്പോൾ ആ വ്യക്തി സ്വതന്ത്രനാണോ എന്ന് കണ്ടെത്താൻ മറ്റൊരാളെ നേരിട്ട് ക്ഷണിക്കുക തുടർന്ന് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് നിശ്ചയിക്കുക അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഒരു അപ്പോയിന്റ്മെന്റ് നിശ്ചയിക്കാൻ നിങ്ങൾ ഫോണിൽ വിളിക്കുക അതിനാൽ ക്രമരഹിതമായ സന്ദേശങ്ങൾ അയയ്ക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് ആരോടെങ്കിലും ചോദിക്കുന്നു അതിനാൽ എനിക്ക് അടുത്തിടെ ഫേസ്ബുക്കിൽ ഒരു രസകരമായ സന്ദേശം ലഭിച്ചു നിങ്ങൾക്ക് ഒരു ശുപാർശ കത്ത് നൽകാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ മൂന്ന് മാസമായി നിങ്ങളെ ഒരു ഫേസ്ബുക്ക് സുഹൃത്തായി മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചു തുടർന്ന് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് ഇടയ്ക്കിടെ സന്ദേശങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എനിക്ക് അക്കാദമിക് ഒന്നും ലഭിച്ചിട്ടില്ല അതിനാൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത് മൂന്ന് മാസമായി നിങ്ങളെ ഒരു ഫേസ്ബുക്ക് മെസഞ്ചർ സുഹൃത്തായി എനിക്കറിയാം എന്നതാണ് അതിനാൽ ഒരു ശുപാർശ കത്ത് നൽകുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രധാന ഇവന്റ് സന്ദേശത്തിനായി ആരെയെങ്കിലും ക്ഷണിക്കുന്നതിനോ ഉള്ള ചില കാര്യങ്ങളുടെ ഗൌരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഉപയോഗിക്കാൻ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുകയും യഥാർത്ഥത്തിൽ ഇവ ചെയ്യുന്നതിന് ഉചിതമായ സമയവും മാധ്യമവും സൃഷ്ടിക്കുകയും വേണം ചിലപ്പോൾ ഇമെയിൽ തന്നെ ഒരു ഔപചാരിക ആശയവിനിമയമായി അംഗീകരിക്കപ്പെടുന്നു എന്നാൽ അതിലുപരിയായി ചിലപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അവരെ വിളിക്കുകയോ അവരുമായി ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുകയോ ചെയ്യുമെന്നാണ് അതിനാൽ അമിതമായ ഉപയോഗം ഒഴിവാക്കുക അവസാനമായി വളരെ പ്രചോദനാത്മകനായ ഒരു എഴുത്തുകാരൻ ബ്രയാൻ ട്രേസിയുടെ പ്രചോദനാത്മകമായ ഉദ്ധരണിയോടെ ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ പുസ്തകം വ്യക്തിത്വ വികസന സമയ മാനേജ്മെന്റ് ലക്ഷ്യത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് ആശയവിനിമയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഉദ്ധരണിയാണ് കാരണം നിങ്ങൾക്ക് ആശയവിനിമയം വികസിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് എങ്ങനെ ഒരു വിദഗ്ദ്ധനാകാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം ആശങ്കകൾ ഉണ്ടാകുമെന്ന് നിങ്ങളിൽ മിക്കവരും കരുതുന്നു എന്നാൽ ആശയവിനിമയം എന്നത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു നൈപുണ്യമാണെന്ന് അദ്ദേഹം പറയുന്നതുപോലെ മനസിലാക്കുക അത് സൈക്കിൾ ഓടിക്കുന്നതോ ടൈപ്പിംഗ് ചെയ്യുന്നതോ പോലെയാണ് നിങ്ങൾ അതിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും ഗുണനിലവാരം വേഗത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയും അതിനാൽ സൈക്കിൾ സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ അല്ലെങ്കിൽ ജോഗിംഗ് പോലെയുള്ള മറ്റ് കഴിവുകൾ വികസിപ്പിച്ചെടുത്തതുപോലെ നിങ്ങൾ ഈ വൈദഗ്ദ്ധ്യം വികസിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ വൈദഗ്ദ്ധ്യം വികസിപ്പിക്കുക ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും അതിനൊപ്പം നിങ്ങളുടെ വ്യക്തിത്വവും വികസിപ്പിക്കുകയും ചെയ്യുക നന്ദി ഞാൻ നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി